ഹായ് എല്ലാവർക്കും ഈ പ്രഭാഷണത്തിൽ ലേക്ക് സ്വാഗതം അവസാന പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എങ്ങനെ ഉപയോഗിക്കാം എന്നും ഇൻവർട്ടിംഗ് ആംപ്ലിഫയർ ആയി ഓപ്പറേഷണൽ ആംപ്ലിഫയർ എങ്ങനെ ഉപയോഗിക്കാം എന്നും ആണ് ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നോൺഇൻവർട്ടിംഗ് ആംപ്ലിഫയറായി ഓപ് ആമ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അതിനാൽ വിപരീത ആംപ്ലിഫയറായി op amp എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അതിനാൽ നമുക്ക് സ്ക്രീനിൽ തിരികെ വരാം നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്യൂട്ട് കാണാം നാം ഇവിടെ എന്താണ് കാണുന്നത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് പ്രയോഗിച്ചുവെന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ നോൺഇൻവർട്ടിംഗ് ടെർമിനലിലേക്ക് സിഗ്നൽ പ്രയോഗിച്ചതായോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഞങ്ങൾക്ക് ഇപ്പോഴും ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് R1 R2 എന്നിവയുണ്ട് ഇവിടെ ഇൻവർട്ടിംഗ് ടെർമിനൽ ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു നോൺഇൻവർട്ടിംഗ് ടെർമിനലിന് സിഗ്നൽ നൽകുന്നു അതിനാൽ ഇൻവർട്ടിംഗല്ലാത്ത ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ ആണ് ഇതെങ്കിൽ ആദ്യം ബാഹ്യ ഘടകങ്ങൾ R1 R2 എന്നിവ ഒരു അടഞ്ഞ ലൂപ്പിനെ സൃഷ്ടിക്കുന്നു രണ്ടാമതായി ഇവിടെ ഔട്ട്പുട്ട് ഇൻവർട്ടിംഗ് ഇൻപുട്ടിനുള്ള ഫീഡ്ബാക്ക് ആയി കൊടുത്തിരിക്കുന്നു മൂന്നാമതായി നോൺ ഇൻവർട്ടിംഗ് ടെർമിനലിലേക്ക് ഇൻപുട്ട് സിഗ്നൽ പ്രയോഗിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളും മനസിലാക്കാൻ വളരെ എളുപ്പമാണ് ഒന്ന് R1 R2 ഒരു അടച്ച ലൂപ്പ് ഉണ്ടാക്കുന്നു രണ്ടാമതായി ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ഗ്രൌണ്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട്നെ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിലേക്ക് നൽകുന്നു മൂന്നാമത്തേത് നോൺ ഇൻവർട്ടിംഗ് ടെർമിനലിലേക്ക് ഇൻപുട്ട് സിഗ്നൽ നൽകിയിരിക്കുന്നു ഇപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ഓപ് ആംപ് അനുയോജ്യമായ കോൺഫിഗറേഷനുകൾ ഉപയോഗിക്കുന്നു അത് അനുയോജ്യമാണെങ്കിൽ വിർച്വൽ ഹ്രസ്വത്തിനായി ചില വ്യവസ്ഥകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് Op amp സർക്യൂട്ടിനായി ഇതിന് നെഗറ്റീവ് ഫീഡ്ബാക്കും അനന്തമായ ഓപ്പൺ ലൂപ്പും ഉണ്ട് ഇപ്പോൾ Vi കൊണ്ട് Vo ഹരിച്ചാൽ നമുക്ക് അടച്ച ലൂപ്പ് ഗെയിൻ G കിട്ടും അത് എന്തെന്നാൽ R2 ഹരണം R1 ൻറെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി ഇത് വളരെ അടിസ്ഥാനപരമായതിനാൽ നമുക്ക് ഇതിനകം അറിയാം അതിനാൽ നമുക്ക് നോക്കാം R1 ഇവിടെ ഗ്രൌണ്ട് ചെയ്തിരിക്കുകയാണ് R2 ഇവിടെയുണ്ട് വെർച്വൽ ഗ്രൌണ്ട് ആശയം കാരണം നമുക്ക് വ്യത്യാസ വോൾട്ടേജ് പൂജ്യം ഉണ്ട് വിർച്വൽ ഗ്രൌണ്ട് എന്ന ആശയം കാരണം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ എത്ര വോൾട്ടേജ് ഉണ്ടോ അത് നമുക്ക് ഇൻവെർട്ടിംഗ് ടെർമിനലും ഉണ്ടാകും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെയുള്ള കറൻറ് കണ്ടുപിടിക്കാൻ Vi യെ R1 കൊണ്ട് ഹരിച്ചാൽ മതി വോൾട്ടേജ് 0 സീറോ ആയതിനാൽ കറണ്ടും 0 ആയിരിക്കും അതിലുപരി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അത് താഴെ കൊടുത്തിരിക്കുന്ന സമവാക്യമാണ് ഇത് മറ്റൊന്നുമല്ല എനിക്ക് V1 കോമൺ ഉണ്ടെങ്കിൽ 1 R2R1 നെ Vi കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും അതിനാൽ ഇതാണ് അടച്ച ലൂപ്പ് ഗെയിൻ അഥവാ വിപരീത അനന്തമായ ഡിഫറൻഷ്യൽ ഗെയിൻ ഇത് പൂജ്യം അനന്തമായ ഇൻപുട്ട് ഇംപെഡൻസല്ലാതെ മറ്റൊന്നുമല്ല അതായത് ViR1 കാരണം R1 ഇൻപുട്ടാണ് സീറോ ഔട്ട്പുട്ട് ഇംപെഡൻസ് ഔട്ട്പുട്ട് വോൾട്ടേജായിരിക്കും അടച്ച ലൂപ്പ് ഗെയിൻ ബാഹ്യ നിഷ്ക്രിയ ഘടകങ്ങളിലാണ് അതായത് ബാഹ്യ നിഷ്ക്രിയ ഘടകങ്ങളാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ കണ്ടു അടച്ച ലൂപ്പ് ആംപ്ലിഫയർ ട്രേഡ് ഓഫ് നേട്ടം നമ്മൾ കണ്ടു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിലെ സമാന ആശയമാണിതെന്നും നമ്മൾ കണ്ടു അതിനാൽ അതിന്റെ തുല്യമായ സർക്യൂട്ട് മോഡൽ ഞാൻ വരച്ചാൽ ഇൻപുട്ട് ഇംപെഡൻസ് അനന്തമാണ് ഗെയിൻ നമ്മൾ ഇവിടെ എഴുതിയ 1 R2R1 ആണ് ഔട്ട്പുട്ട് ഇംപെഡൻസ് 0 ആണ് അതിനാൽ ഇൻപുട്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് പ്രയോഗിക്കുന്നതിനാൽ എൻറെ ഔട്ട്പുട്ട് സിഗ്നൽ ഇൻപുട്ട് സിഗ്നലിനുള്ള ഘട്ടത്തിലായിരിക്കും എന്നതൊഴിച്ചാൽ മിക്ക കാര്യങ്ങളും ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിനോട് സാമ്യമുള്ളതാണെന്ന് നിങ്ങൾ ഓർക്കണം അതിനർത്ഥം ഈ പ്രത്യേക ടെർമിനലിൽ വലതുവശത്ത് ഞാൻ ഒരു ഇൻപുട്ട് സിഗ്നൽ പ്രയോഗിച്ചാൽ എന്റെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കും പക്ഷേ ഘട്ടത്തിൽ ആയിരിക്കും അതിനാൽ ഇത് പൂജ്യം ഡിഗ്രിയാണ് ഇതും പൂജ്യം ഡിഗ്രിയാണ് ഇത് ഇൻപുട്ട് സിഗ്നലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഘട്ടം ഘട്ടമാണ് ആ വശം നോൺ ഇൻവെർട്ടിംഗ് ആണ് ഇത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറാണ് അതിനാൽ നോൺ ഇൻവെർട്ടിംഗ് op amp ന്റെ ഒരു ഉദാഹരണം നോക്കാം Rf 100 kiloohm നും Rin 10 kiloohmനും തുല്യമാണെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ സർക്യൂട്ട്ന്റെ അടച്ച ലൂപ്പ് ഗെയിൻ കണ്ടെത്തുക നമുക്ക് Rf ൻറെ മൂല്യം ഉണ്ട് Rin ൻറെ മൂല്യവും ഇപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ സൂത്രവാക്യം 1 RfRin ആണ് ഇതാണ് ഗെയിൻ എനിക്ക് Vo ഉം ഉണ്ടെങ്കിൽ Vo 1 RfRin Vin നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ സൂത്രവാക്യം ഇതാണ് അതിനാൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ അടച്ച ലൂപ്പ് ഗെയിൻ 11 അല്ലെങ്കിൽ 20 8dB ആണ് ഇത് 20 ലോഗ്ഗെയിൻ അല്ലെങ്കിൽ 20 ലോഗ് ഉപയോഗിച്ച് നേട്ടത്തിന്റെ മൂല്യം ഡെസിബെലുകളായി പരിവർത്തനം ചെയ്യുന്നതിലൂടെ ലഭിക്കും 20 കാരണം നിങ്ങൾ നൽകിയ സമവാക്യത്തിലെ റെസിസ്റ്ററുകളുടെ മൂല്യം പ്രയോഗിക്കണം അതിനാൽ നമുക്ക് മറ്റൊന്ന് കണ്ടെത്താം മറ്റൊരു പ്രശ്നം പരിഹരിക്കാം അതിനാൽ ഈ പ്രശ്നം യഥാർത്ഥ സർക്യൂട്ടിന്റെ നേട്ടം 40 ആയി വർദ്ധിപ്പിച്ചു നിങ്ങൾ സമാനമായ ഒരു ഉദാഹരണം കണ്ടു ആവശ്യമായ റെസിസ്റ്ററുകളുടെ മൂല്യങ്ങൾ കണ്ടെത്തുക അതിനാൽ Av 40 നൽകിയാൽ അത് നമുക്കറിയാം Av യുടെ സമവാക്യം താഴെ കൊടുത്തിട്ടുണ്ട് Rin 10 kiloohm ആണ് അതിനാൽ Rf 390 kiloohm ആകാം അതിനാൽ ഇത് മനസിലാക്കാൻ എളുപ്പമാണ് അതിനാലാണ് അടുത്ത പ്രശ്നത്തിലേക്ക് പോകുന്നത് അടുത്ത പ്രശ്നം ഈ ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ ഓരോ ഘട്ടത്തിലുമുള്ള വോൾട്ടേജ് നേട്ടം അനുപാതവും ഡെസിബെലിന്റെ യൂണിറ്റുകളും കണക്കാക്കുന്നു തുടർന്ന് മൊത്തത്തിലുള്ള വോൾട്ടേജ് നേട്ടം കണക്കാക്കുക അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ആംപ്ലിഫയർ നൽകിയിട്ടുണ്ട് ഇവിടെ രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഇൻവെർട്ടിംഗ് അല്ലാത്ത ടെർമിനലിൽ ഞങ്ങൾ ഇൻപുട്ട് പ്രയോഗിക്കുന്നു ഇൻവെർട്ടിംഗ് ഇൻപുട്ട് വലതുവശത്തുള്ള മറ്റൊരു ആംപ്ലിഫയറിലേക്ക് ഔട്ട്പുട്ട് വീണ്ടും പ്രയോഗിക്കുന്നു ആദ്യത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ഓപ് ആമ്പ് വലതുഭാഗത്തിന്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിന്റെ ഇൻപുട്ടിലേക്ക് നൽകുന്നു ഇവിടെ Avയുടെ മൂല്യം കണ്ടെത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു മൊത്തത്തിലുള്ള വോൾട്ടേജ് നേട്ടത്തിന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ ഓരോ ഘട്ടത്തിനും വോൾട്ടേജ് നേട്ടവും അതിനാൽ സർക്യൂട്ട് സങ്കീർണ്ണമായി കാണപ്പെടുമെന്ന് നിങ്ങൾ കാണുന്നു പക്ഷേ പരിഹാരം വളരെ എളുപ്പമാണ് ഇപ്പോൾ നിങ്ങൾ ആദ്യഘട്ടം കാണുന്നു ഘട്ടം ഒന്ന് എന്താണ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ സൂത്രവാക്യം എന്താണ് 1 RfR1 അതിനാൽ എന്താണ് Rf 3 3k R1 4 7k അതിനാൽ നമുക്ക് രണ്ടാം ഘട്ടം പരിഗണിക്കാം രണ്ടാം ഘട്ടം ഫോർമുല എന്താണ് കാരണം 9 1 2 2 3 136 ആയിരിക്കും അതിനാൽ നമുക്ക് ഇപ്പോൾ Av2 നെ അറിയാം അതിനാൽ ഞാൻ എന്റെ Av1 നെ ഡെസിബെലായി പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ 20 log 1 702 അല്ലെങ്കിൽ അത് 4 6 ഡെസിബെൽ ആയിരിക്കും ഞാൻ എന്റെ Av2 നെ ഡെസിബെലുകളാക്കി മാറ്റുകയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്നത് 20 log 4 3 decibel അതിനാൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ മൊത്തത്തിലുള്ള നേട്ടം Av1 ഗുണനം Av2 ആണ് 1 ഇപ്പോൾ എന്റെ നേട്ടം ഡെസിബെലിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം ഞാൻ ഉപയോഗിക്കേണ്ടത് 20 log അത് എനിക്ക് 16 9 ഡെസിബെലിന്റെ മൂല്യം നൽകും നിങ്ങൾക്ക് ഒരു പ്രശ്നം നൽകിയ വിപരീതമല്ലാത്ത ആംപ്ലിഫയറിനുള്ള പരിഹാരം ഞങ്ങൾ ഇങ്ങനെ കണ്ടെത്തും അതിനാൽ അടുത്ത മൊഡ്യൂളിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എങ്ങനെ പരിഹരിക്കാമെന്ന് ഞങ്ങൾ കാണും നേരത്തെ വിപരീതം കണ്ടു പിന്നെ സംഗ്രഹിക്കുന്നത് കണ്ടു പിന്നെ നോൺവെർട്ടിംഗ് ആംപ്ലിഫയർ ശരിയായി കണ്ടു ഇപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അടുത്ത മൊഡ്യൂളിൽ നോക്കാം അതുവരെ നിങ്ങൾ ഈ മൊഡ്യൂളിലേക്ക് നോക്കിയാൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഓപ് ആമ്പ് ഒരു ഇൻവെർട്ടിംഗ് അല്ലാത്ത ആംപ്ലിഫയർ സർക്യൂട്ട് ആയി എങ്ങനെ രൂപകൽപ്പന ചെയ്യാം ഒരു വിപരീത ആംപ്ലിഫയർ സർക്യൂട്ടായി നിങ്ങൾക്ക് ഓപ് ആമ്പ് എങ്ങനെ രൂപകൽപ്പന ചെയ്യാം ഓപ് ആമ്പ് എങ്ങനെ സംഗ്രഹ ആംപ്ലിഫയർ ആയി രൂപകൽപ്പന ചെയ്യാം എന്നൊക്കെ കാണാം അതുവരെ ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളെ എല്ലാവരെയും അടുത്ത ക്ലാസ്സിൽ കാണും